ദ്രുത അടുക്കൽ എന്ന മറ്റൊരു അൽഗോരിതം കാണാൻ ഞങ്ങൾ ഇപ്പോൾ തയ്യാറാണ് അതിനാൽ 1960 കളുടെ തുടക്കത്തിൽ ടോണി ഹോറെ എന്ന കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ദ്രുത അടുക്കൽ കണ്ടുപിടിച്ചത് അത് ഏകദേശം 50 വർഷം മുമ്പാണ് ടോണി ഹോറെ വളരെ അറിയപ്പെടുന്ന ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന് ട്യൂറിംഗ് എന്ന അവാർഡ് അക്കാദമിക് കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന് നൽകുന്ന ഏറ്റവും ഉയർന്ന നേട്ടങ്ങളിലൊന്ന് ലഭിച്ചു അതിനാൽ ദ്രുതഗതിയിലുള്ള അടുക്കലിന്റെ ഉദ്ദേശ്യം എന്താണ് ലയനം അടുക്കുന്നതിൽ ഞങ്ങൾ കണ്ട ചില പോരായ്മകളെ മറികടക്കുക എന്നതാണ് ദ്രുത തരംതിരിക്കലിന്റെ ഉദ്ദേശ്യം അതിനാൽ ലയനം അടുക്കുന്നതിൽ ഞങ്ങൾ കണ്ട ഒരു കാര്യം ലയന പ്രവർത്തനം കാരണം ഞങ്ങൾക്ക് അധിക സംഭരണം ആവശ്യമാണ് അതിനാൽ ഇത് ലയനം അടുക്കുന്നതിന് അൽപ്പം ചെലവേറിയതാക്കുന്നു അതിനാൽ ലയിപ്പിച്ച ശ്രേണിയിൽ ഞങ്ങൾ ജനകീയമാകുമ്പോൾ ഈ അധിക സംഭരണം ഞങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ കാരണം ലയന പ്രവർത്തനത്തിൽ ഞങ്ങൾ ഇരുവശത്തുനിന്നും ഘടകങ്ങൾ പുറത്തെടുക്കുന്നുണ്ടെന്നും ഞങ്ങൾ നിരീക്ഷിച്ചു അതിനാൽ അടിസ്ഥാനപരമായി വലതുവശത്തുള്ള ചില ഘടകങ്ങൾ ഇടതുവശത്തെ ചില ഘടകങ്ങളേക്കാൾ ചെറുതായിരിക്കാം ഇത് ലയിപ്പിക്കുന്നതിന് ഉപയോക്താവ് കാരണമാകുന്നു അതിനാൽ നമുക്ക് എല്ലാം വിഭജിക്കാമോ അതിനാൽ ഇത് സംഭവിക്കുന്നില്ല ഇടതുവശത്തുള്ള എല്ലാം ചെറുതും വലതുവശത്തെ എല്ലാം വലുതും ആണ് ഈ രീതിയിൽ ഒരു വിഭജനം നടത്തി ജയിക്കാനാകുമോ ശരി ഇതാണ് സ്ഥിതി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മധ്യ മൂല്യം മധ്യത്തിൽ ഇടേണ്ടതുണ്ട് അതിനാൽ നമുക്ക് മീഡിയൻ കണ്ടെത്താനാകുമെന്ന് കരുതുക അതിനാൽ മീഡിയൻ എന്താണെന്ന് ഓർമ്മിക്കുക ശരാശരി എന്നത് അറേയിലെ പകുതി മൂല്യങ്ങളും വലുതും പകുതിയും ഉള്ള മൂല്യമാണ് ചെറുത് അതിനാൽ ഇപ്പോൾ m നെക്കാൾ ചെറുതായ എല്ലാം ഇടത് പകുതിയിലേക്ക് നീക്കുന്നു അതിനാൽ ഇവിടെ m നേക്കാൾ കുറവോ തുല്യമോ ആയ ഒരു കൂട്ടം മൂല്യങ്ങളുണ്ട് തുടർന്ന് വലതുവശത്ത് കർശനമായി വലുതായ എന്തെങ്കിലും ഉണ്ട് അതിനാൽ തീർച്ചയായും ഞങ്ങൾ ഈ ഷിഫ്റ്റിംഗ് നടത്തണം പക്ഷേ ക്ലെയിം നമുക്ക് ഈ ഷിഫ്റ്റിംഗ് രേഖീയ സമയത്ത് ചെയ്യാനാകുമെന്നതാണ് ഇത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗം ഞങ്ങൾ കാണും അതിനാൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് കരുതുക ശരാശരി m ആയ ഒരു മൂല്യം തിരഞ്ഞെടുത്ത് m നെക്കാൾ ചെറുത് എല്ലാം ഇടത്തേക്ക് മാറ്റുക അപ്പോൾ ഇത് ഏകദേശം പകുതി പോയിന്റായി മാറും കാരണം m എന്നത് അറേയെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്ന ഒരു മൂല്യമാണ് അവ ചെറുതോ പകുതിയോ വലുതോ പകുതിയോ ആണ് ഇപ്പോൾ ഞാൻ ഈ ആവർത്തന കാര്യം ചെയ്യുന്നു ഞാൻ ഇത് അടുക്കുകയും ഇപ്പോൾ ഇത് ലയിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് ഓർമ്മിക്കുകയും ചെയ്യുന്നു കാരണം ഇടതുവശത്തുള്ള എല്ലാം ഇതിനകം വലതുവശത്തുള്ള എല്ലാതിനേക്കാളും ചെറുതാണ് അതിനാൽ എനിക്ക് മുന്നോട്ട് പോകാനും അറേ അടുക്കിയിട്ടുണ്ടെന്ന് കരുതാനും കഴിയും അതിനാൽ ഞാൻ ഇത് ചെയ്യുകയാണെങ്കിൽ ലയനം അടുക്കുന്നതിനുള്ള വിശകലനത്തിലൂടെ എനിക്ക് ഒരു ആവർത്തനമുണ്ട് അത് t ന്റെ n ഉള്ളത് 2 മടങ്ങ് t n കൊണ്ട് 2 പ്ലസ് n ആണ് ഇപ്പോൾ നമ്മൾ ഇത് ഓർഡർ n ലോഗ് n ആണ് അതിനാൽ ഇത് ലയനം അടുക്കുന്നതിന് സമാനമായ സങ്കീർണ്ണത ഞങ്ങൾക്ക് നൽകും പക്ഷേ ഇത് അധിക ഇടം സൃഷ്ടിക്കുന്നതിൽ ഉൾപ്പെടുന്ന ചില ഓവർഹെഡുകൾ ഒഴിവാക്കും കാരണം ഞാൻ ഇവിടെ ആവർത്തന കോൾ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഭാഗവും സ്ഥലവും ഈ സ്ഥലത്ത് എളുപ്പത്തിൽ അടുക്കാൻ കഴിയും കാരണം ഞാൻ ഈ പരിഹാരം ചെയ്യുമ്പോൾ മറ്റ് ഭാഗത്തെ പരാമർശിക്കേണ്ട ആവശ്യമില്ല അതിനാൽ തീർച്ചയായും ഒരു ക്യാച്ച് ഉണ്ടായിരിക്കണം മീൻപിടിത്തം ഞങ്ങൾ എങ്ങനെ മീഡിയൻ കണ്ടെത്തും ഞങ്ങളുടെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാരണം മീഡിയൻ കണ്ടെത്തുക പോലുള്ള സ്ഥിതിവിവരക്കണക്കുകൾ ചെയ്യുക എന്നതാണ് അതിനാൽ ഞങ്ങൾ ശ്രേണി അടുക്കിയിട്ടുണ്ടെങ്കിൽ ശരാശരി മൂല്യം മധ്യ മൂല്യമാണ് പക്ഷേ തീർച്ചയായും ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അറേ അടുക്കുക എന്നതാണ് അതിനാൽ ഞങ്ങൾക്ക് മീഡിയൻ ഉണ്ടെന്ന് അനുമാനിക്കാൻ കഴിയില്ല കാരണം തരംതിരിക്കൽ മീഡിയൻ കണ്ടെത്താനുള്ള ഒരു എളുപ്പ മാർഗമാണെന്ന് ഞങ്ങൾ ഇതിനകം കണ്ടു അതിനാൽ ഇത് ഒരുതരം ചിക്കൻ മുട്ട പ്രശ്നമാണ് അടുക്കാൻ ഞങ്ങൾക്ക് മീഡിയൻ ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ ടോണി ഹോറെ അൽഗോരിതംസ് എന്താണ് പറയുന്നത് മീഡിയം തിരഞ്ഞെടുക്കേണ്ടതില്ല എ യിൽ ചില മൂല്യങ്ങൾ എടുത്ത് ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുക അതിനാൽ ഞങ്ങൾ ഈ പിവറ്റ് എടുക്കുന്നു തുടർന്ന് നിങ്ങൾ അതിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു പിവറ്റിനേക്കാൾ ചെറുതും പിവറ്റിനേക്കാൾ വലുതുമായവ അതിനാൽ പിവറ്റ് ചില മൂല്യവും ശ്രേണിയും മാത്രമാണ് അത് ശരാശരി ആയിരിക്കേണ്ടതില്ല അത് മീഡിയൻ അല്ലായെങ്കിൽ ഇത് ഏറ്റവും മോശമായ സങ്കീർണ്ണതയുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളിൽ കലാശിക്കുമെന്ന് ഞങ്ങൾ കാണും പക്ഷേ നമുക്ക് അത് അവഗണിക്കാം അതിനാൽ ഞങ്ങൾ അറേയിൽ കുറച്ച് മൂല്യം തിരഞ്ഞെടുക്കുകയും അതിനെക്കാൾ ചെറുതായി ഞങ്ങൾ എടുക്കുകയും ഇടതുവശത്തേക്ക് നീക്കുകയും ചെയ്യുന്നു അതിനേക്കാൾ വലുത് എല്ലാം വലതുവശത്തേക്ക് നീക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഞങ്ങൾ അവയെ ആവർത്തിച്ച് അടുക്കുന്നു അതിനുശേഷം ഇടതുവശത്തുള്ള ഒന്നും വലതുവശത്തുള്ള ഒന്നിനോടും കൂട്ടിച്ചേർക്കേണ്ടതില്ലെന്ന് ഞങ്ങൾ ഉറപ്പുനൽകി അതിനാൽ ഫലമായുണ്ടാകുന്ന ശ്രേണി അടുക്കുന്നു അതിനാൽ ഇത് ദ്രുതഗതിയിലുള്ള അടുക്കൽ ഒരു പിവറ്റ് ഘടകം തിരഞ്ഞെടുക്കുക അതിനാൽ ഉദാഹരണത്തിന് നടപ്പിലാക്കിയതുപോലെ നിങ്ങൾക്ക് അറേയിലെ ആദ്യ മൂല്യം എടുക്കാം ഈ അറേയെ താഴത്തെയും മുകളിലേക്കും വിഭജിക്കുക അതിനാൽ താഴത്തെ ഭാഗം പിവറ്റിനേക്കാൾ കുറവാണ് മുകളിലെ ഭാഗം പിവറ്റിനേക്കാൾ വലുതാണ് അതിനാൽ നിർണായക ഘട്ടം ഈ വിഭജനമാണ് ഈ വിഭജനം എങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങൾ കാണും അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തുടർന്ന് ഞങ്ങൾ ഈ പിവറ്റ് ഇവിടെ നീക്കുന്നു അതിനാൽ അത് ശരിയായ സ്ഥലത്താണെന്നും ഇപ്പോൾ ഞങ്ങൾ ഈ ഭാഗവും ഈ ഭാഗവും ആവർത്തിച്ച് അടുക്കുന്നു ഞങ്ങൾ ചെയ്തു കാരണം ഒന്നും നീങ്ങേണ്ടതില്ല അതിനാൽ ഒരു ഉദാഹരണത്തിലൂടെ അൽഗോരിത്തിന്റെ ഉയർന്ന തലത്തിലുള്ള വിവരണം ഇവിടെയുണ്ട് അതിനാൽ ഇത് എന്റെ അറേ ആണെന്ന് കരുതുക തുടർന്ന് ഞാൻ പിവറ്റിലെ ആദ്യത്തെ ഘടകം 43 എന്ന് തിരഞ്ഞെടുക്കുന്നു അതിനാൽ 43 നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ഈ ശ്രേണി വിഭജിക്കുന്നു അതിനാൽ എല്ലാം 43 നെക്കാൾ ചെറുതാണ് അതിനാൽ ഇവിടെ 43 നെക്കാൾ ചെറിയ ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് 32 22 13 എന്നിവയുണ്ട് അതിനാൽ ഈ മൂലകങ്ങൾ ഇടതുവശത്തും 78 63 57 91 വലത്തേക്ക് പോകണം അതിനാൽ ഞാൻ ഈ പാർട്ടീഷനിംഗ് നടത്തുന്നു ഈ പാർട്ടീഷനിംഗ് ഞാൻ എങ്ങനെ ചെയ്യും നന്നായി ഞാൻ ഒരു തരം അതിനാൽ ഞാൻ എല്ലാം ഇടതുവശത്തേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ഞാൻ ഇടത് വശത്ത് അടുക്കുന്നു അതിനാൽ ഇത് മേലിൽ അടുക്കുമെന്ന് കരുതുന്നില്ല ഞാൻ 43 ൽ ചെറുതായി എഡിറ്റുചെയ്യുന്നു ഇത് അടുക്കിയിട്ടില്ല അതിനേക്കാൾ വലുത് എല്ലാം ഉണ്ട് പിന്നെ ആവർത്തിച്ച് എനിക്ക് ഇത് അടുക്കാൻ കഴിയുമെന്ന് കരുതുന്നുവെങ്കിൽ ഞാൻ മുഴുവൻ അറേയും അടുക്കിയിരിക്കുന്നു കാരണം ഇപ്പോൾ മഞ്ഞ ഭാഗത്ത് ഒന്നും പച്ച വശവുമായി സംയോജിപ്പിക്കേണ്ടതില്ല ചുവന്ന പിവറ്റ് മൂല്യം ഇവ രണ്ടും വേർതിരിക്കുന്നു അതിനാൽ ഈ വിഭജനം എങ്ങനെ ചെയ്യാമെന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനാൽ വിഭജനത്തിന് രണ്ട് വഴികളുണ്ട് അതിനാൽ ഞങ്ങൾ ഒരെണ്ണം വിശദമായി നോക്കുകയും അതിനായി കുറച്ച് കോഡ് കാണിക്കുകയും ചെയ്യും തുടർന്ന് ഞങ്ങൾ ഒരു ഉദാഹരണത്തിലൂടെ മറ്റൊന്നിലേക്ക് നോക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം കോഡ് എഴുതേണ്ടിവരും അതിനാൽ വിഭജനത്തിനുള്ള ഒരു വഴി ഇതാ അതിനാൽ ഞാൻ ഇടതുവശത്തുള്ള പിവറ്റ് എലമെൻറിൽ നിന്ന് ആരംഭിച്ചു ഇപ്പോൾ എനിക്ക് ഈ മൂല്യങ്ങളുടെ മുഴുവൻ ശ്രേണിയും വലതുവശത്ത് ക്രമീകരിച്ചിട്ടില്ല അതിനാൽ ഈ ചിത്രത്തിൽ ഞാൻ സൂചിപ്പിച്ച രണ്ട് സൂചികകൾ രണ്ട് കളർ പോയിന്ററുകൾ ഉപയോഗിച്ച് ഇടാം മഞ്ഞ പോയിന്ററും പച്ച പോയിന്ററും അൽഗോരിതം ഞങ്ങൾ കുറച്ച് ഘട്ടങ്ങൾ നീക്കിയാൽ ഈ പ്രാധാന്യം അൽപം വ്യക്തമാകും അതിനാൽ ഞങ്ങൾ ചെയ്യുന്നത് എല്ലാം പച്ച പോയിന്ററിന്റെ വലതുവശത്താണ് അതിനാൽ ഇതിനകം തന്നെ വിഭജിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ അവസാനത്തെ പച്ച പോയിന്റർ സൂചിപ്പിക്കുന്നു അതിനാൽ പച്ച പോയിന്ററിന്റെ വലതുവശത്തുള്ള എന്തും വിഭജിച്ചിട്ടില്ല മറുവശത്ത് മഞ്ഞ പോയിന്റർ സൂചിപ്പിക്കാൻ പോകുന്നു അതിനാൽ ഇത് താഴത്തെ ഭാഗത്തിന്റെ പരിധി സൂചിപ്പിക്കാൻ പോകുന്നു അതിനാൽ എനിക്ക് ആവശ്യമാണ് അതിനാൽ അടിസ്ഥാനപരമായി പൊതുവെ എനിക്ക് ഈ ചിത്രം ലഭിക്കും അതിനാൽ എനിക്ക് ഇവിടെ പിവറ്റ് ലഭിക്കാൻ പോകുന്നു അതിനുശേഷം ഇതിനകം കണ്ടെത്തിയ താഴത്തെ ഭാഗം ഞാൻ ഇവിടെ നേടാൻ പോകുന്നു പിന്നെ ഞാൻ ഇവിടെ മുകളിലെ ഭാഗം നേടാൻ പോകുന്നു ഈ ഘടകങ്ങൾ ഇതിനകം തന്നെ സ്കാൻ ചെയ്ത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് തുടർന്ന് എനിക്ക് ചെയ്യേണ്ട ഭാഗം ഉണ്ട് അതിനാൽ തുടക്കത്തിൽ എല്ലാം ചെയ്യണം താഴത്തെ ഭാഗമില്ല മുകളിലെ ഭാഗവുമില്ല അതിനാൽ ഈ പോയിന്ററുകൾ ഞങ്ങൾ ഇതുപോലെ സൂക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നത് അതിനാൽ ഈ കാര്യം ഇതിന്റെ അവസാനത്തിലേക്കും ഈ കാര്യം ഇതിന്റെ അവസാനത്തിലേക്കും വിരൽ ചൂണ്ടുന്നു അതിനാൽ ഇതാണ് ഞങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ ഈ ചിത്രത്തിനൊപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ആരംഭിക്കുന്നു അതിനാൽ നമ്മൾ ചെയ്യുന്നത് താഴ്ന്ന എന്തെങ്കിലും കണ്ടാൽ ഞാൻ താഴത്തെ ഭാഗം നീട്ടുകയും അടുത്ത ഘടകത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇത് താഴ്ന്നതായി എന്തെങ്കിലും കാണുന്നു അതിനാൽ ഞങ്ങൾ താഴത്തെ ഭാഗം വിപുലീകരിക്കുന്നു അതിനാൽ ഈ പോയിന്റ് പറഞ്ഞാൽ താഴത്തെ ഭാഗത്തിന് 32 22 എന്നീ രണ്ട് മൂല്യങ്ങളുണ്ടെന്നും മുകളിലെ ഭാഗം ശൂന്യമാണെന്നും എല്ലാം 78 മുതൽ ആയിരിക്കും സമയം കാണുക 0751 ഇപ്പോൾ ഞാൻ 78 നോക്കുന്നു അതിനാൽ 78 നെ 43 നെക്കാൾ വലുതാണ് അതിനാൽ താഴത്തെ ഭാഗം ഇവിടെ നിൽക്കുന്നു ഇപ്പോൾ എനിക്ക് ശൂന്യമല്ലാത്ത മുകളിലെ ഭാഗം 78 ഉണ്ട് ഇപ്പോൾ ഞാൻ 63 നോക്കുന്നു വീണ്ടും 63 മുകളിലെ ഭാഗത്തിന്റെ ഭാഗമാണ് അതിനാൽ ഞാൻ വീണ്ടും ഈ ഫോളോ നീക്കുന്നു 57 വീണ്ടും മുകളിലെ ഭാഗത്തിന്റെ ഭാഗമാണ് അതിനാൽ ഞാൻ ഫോളോവിലേക്ക് നീങ്ങുന്നു 91 വീണ്ടും ഫോളോയിലേക്ക് നീങ്ങുന്നു അതിനാൽ ആദ്യത്തെ രസകരമായ കാര്യം ഞാൻ 13 ൽ വരുമ്പോൾ സംഭവിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ 13 ൽ വരുമ്പോൾ അത് താഴത്തെ ഭാഗത്തേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ താഴത്തെ ഭാഗം വളരെ അകലെയാണ് അതിനാൽ ഞാൻ ഇത് എങ്ങനെ നേടാം അതിനാൽ ഞാൻ എന്തുചെയ്യും താഴത്തെ പോയിന്ററിന്റെ വലതുവശത്തുള്ള ഈ ഘടകം എനിക്കറിയാം അതിനാൽ ഇത് പി യേക്കാൾ വലുതാണ് ഈ ഘടകം പി യേക്കാൾ ചെറുതാണ് അതിനാൽ എനിക്ക് ആവശ്യമുള്ളത് നേടാനുള്ള ഒരു മാർഗം ഈ രണ്ട് മൂല്യങ്ങളും കൈമാറുക എന്നതാണ് അതിനാൽ ഞാൻ 13 ഉം 78 ഉം കൈമാറ്റം ചെയ്യുന്നു അതിനാൽ ഞാൻ 13 എടുക്കുന്നു അതിനെ താഴ്ന്നതായി ലേബൽ ചെയ്യുന്നു തുടർന്ന് ഞാൻ രണ്ട് പോയിന്റുകളും കൈമാറ്റം ചെയ്യുകയും നീക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒരു ഫോർവേർഡ് പാർട്ടീഷനിംഗ് അൽഗോരിതം ആണ് ഇത് അൺ പാർട്ടീഷൻ ഭാഗത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുന്നു മുകളിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഞാൻ ഗ്രീൻ പോയിന്റർ നീക്കുന്നു താഴ്ന്ന എന്തെങ്കിലും ഞാൻ കാണുകയാണെങ്കിൽ മുകളിലുള്ള ഘടകത്തിന്റെ ആദ്യ ഭാഗം ഉപയോഗിച്ച് ഞാൻ ആ താഴ്ന്ന മൂലകം കൈമാറ്റം ചെയ്യുന്നു തുടർന്ന് ഞാൻ രണ്ട് പാർട്ടീഷനുകളും വിപുലീകരിക്കുന്നു പിന്നെ ഒടുവിൽ ഈ ഘട്ടത്തിൽ എനിക്ക് ഇപ്പോഴും അന്തിമ കാര്യമില്ല പക്ഷേ ഈ പിവറ്റ് ഘടകം ഈ രണ്ടിനുമിടയിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് അവസാനത്തേതാണെന്ന് എനിക്കറിയാം അതിനാൽ മഞ്ഞ പോയിന്ററിന്റെ വലതുവശത്തുള്ളത് ആദ്യത്തെ മുകളിലെ പരിധിയും മഞ്ഞ പോയിന്ററിന്റെ ഇടതുവശത്തുള്ളത് അവസാനത്തെ താഴ്ന്ന കാര്യവുമാണ് അതിനാൽ എനിക്ക് 43 ഉം 13 ഉം എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും തുടർന്ന് എനിക്ക് അന്തിമ അറേ പാർട്ടീഷൻ ലഭിക്കും ആ പിവറ്റിന് നടുക്ക് ഇടത് വശത്ത് താഴത്തെ ഭാഗവും വലത് വശത്ത് മുകളിലേക്കും ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ പൊതുവായി ദ്രുതഗതിയിൽ അടുക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ പൊതുവെ ഇപ്പോൾ ഓർക്കുക ഞങ്ങൾ ഈ പാർട്ടീഷനിംഗ് ചെയ്ത ശേഷം ഈ ഭാഗം വേഗത്തിൽ അടുക്കുകയും ഈ ഭാഗം വേഗത്തിൽ അടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനാൽ ആവർത്തന കോളുകൾ വ്യത്യസ്ത സെഗ്മെന്റുകൾ അടുക്കും അതിനാൽ ഓരോ കോളിനും ഞാൻ ചില ഇടത് പരിധിയിൽ നിന്ന് ചില വലത് പരിധിയിലേക്ക് അടുക്കുന്നുവെന്ന് പറയുന്നത് ഉപയോഗപ്രദമാണ് അതിനാൽ പൊതുവേ ദ്രുത അടുക്കൽ ഒരു അറേ എടുക്കും ഇതിന് രണ്ട് പോയിന്ററുകൾ എടുക്കും ഇത് l മുതൽ r മൈനസ് 1 വരെ അടുക്കുമെന്ന് പറയും ഇപ്പോൾ ഈ നീളം ചെറുതാണെങ്കിൽ എനിക്ക് ഒരു മൂല്യം മാത്രമേയുള്ളൂ r മൈനസ് l 1 ൽ കുറവോ തുല്യമോ ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് മൂല്യം വേണം അല്ലെങ്കിൽ എനിക്ക് മൂല്യങ്ങൾ അടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല അതിനാൽ ഇതാണ് അടിസ്ഥാന കേസ് അതിനാൽ ഇത് ആവർത്തന മൂല്യ അൽഗോരിതം ആണ് സോർട്ടിംഗ് ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാത്ത ഒരു ഘടകമായി മാത്രം അടുക്കുന്നതിനുള്ള ശ്രേണി അല്ലെങ്കിൽ മുമ്പത്തെ ഉദാഹരണത്തിന്റെ പദാവലി ഉപയോഗിച്ച് മഞ്ഞ പോയിന്ററിന്റെ സ്ഥാനം സൂചിപ്പിക്കാൻ ഞങ്ങൾ മഞ്ഞ ഉപയോഗിക്കുന്നു കൂടാതെ പച്ച പോയിന്ററിന്റെ സ്ഥാനം സൂചിപ്പിക്കാൻ ഞങ്ങൾ പച്ച ഉപയോഗിക്കുന്നു അതിനാൽ ഈ രണ്ട് അമ്പടയാളങ്ങളുടെയും സ്ഥാനം ഈ രണ്ട് വേരിയബിളുകൾ സൂചിപ്പിക്കുന്നു അതിനാൽ ഞങ്ങൾ പിവറ്റിന്റെ വലതുവശത്തേക്ക് ആരംഭിക്കുന്നുവെന്ന് ഓർമ്മിക്കുക അതിനാൽ തുടക്കത്തിൽ നമുക്ക് l എന്ന സ്ഥാനത്താണ് നമുക്ക് ആ പിവറ്റും r മൈനസ് 1 ഉം അവസാന നിബന്ധനകളുണ്ട് അതിനാൽ ഇതാണ് ഞങ്ങളുടെ പിവറ്റ് പി അതിനാൽ ഞങ്ങളുടെ പ്രാരംഭം ഈ രണ്ട് പോയിന്ററുകളും ഇവിടെ ഇടുക എന്നതാണ് കാര്യം അതിനാൽ തുടക്കത്തിൽ മഞ്ഞ എൽ പ്ലസ് 1 ആണ് അതിനാൽ അതാണ് ഈ സ്ഥാനം ഞങ്ങൾ ഇപ്പോൾ പച്ചയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു അതിനാൽ പച്ച l പ്ലസ് 1 ആരംഭിച്ച് വരെ പോകുന്നു അതിനാൽ പച്ച മൂല്യം പിവറ്റിനേക്കാൾ ചെറുതാണെന്ന് കണ്ടാൽ അതിനാൽ ഇതാണ് പിവറ്റ് അതിനാൽ l ന്റെ A ആണ് പിവറ്റ് അതിനാൽ പച്ച മൂല്യം പച്ച പോയിന്ററുകൾക്ക് കീഴിൽ ഞാൻ നോക്കുന്ന മൂല്യം ചെറുതാണ് തുടർന്ന് ഞാൻ ഈ കൈമാറ്റം ചെയ്യുന്നു അതിനാൽ ഞാൻ എവിടെയെങ്കിലും ധരിക്കുകയും എനിക്ക് ഈ പച്ച മൂല്യമുണ്ടെങ്കിൽ ഇത് സംഭവിക്കുന്നത് ചെറുതാണെങ്കിൽ ഞാൻ ഈ രണ്ട് മൂല്യങ്ങളും കൈമാറ്റം ചെയ്യുന്നു അതിനാൽ ഇത് സമാനമാണ് മഞ്ഞ സ്ഥാനത്ത് ഒരു മൂലകവും പച്ച സ്ഥാനത്തുള്ള മൂലകവും എയും സ്വാപ്പ് ആയിരിക്കണം തുടർന്ന് ഞാൻ മഞ്ഞ പോയിന്റും വർദ്ധിപ്പിക്കും ഒരു പി യിൽ എങ്ങനെയെങ്കിലും ഗ്രീൻ പോയിൻറ് വർദ്ധിപ്പിക്കും അതിനാൽ ഒടുവിൽ ഈ ലൂപ്പിന് ശേഷം എനിക്ക് പിവറ്റ് എലമെൻറ് ഉള്ളിടത്തോളം ഈ പാർട്ടീഷനിംഗ് നടത്തി എനിക്ക് താഴത്തെ ഭാഗവും മുകളിലെ ഭാഗവും ഉണ്ട് ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ടത് പിവറ്റിനെ മധ്യത്തിലേക്ക് നീക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് എനിക്ക് ഇവിടെ മഞ്ഞ പോയിന്ററും ഇവിടെ പച്ച പോയിന്ററും ഉണ്ട് അതിനാൽ എനിക്ക് ഇവിടെ അവസാന ഘടകം എടുത്ത് പിവറ്റിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടതുണ്ട് അതാണ് ഇത് സംഭവിക്കുന്നത് മഞ്ഞ മൈനസ് 1 സ്ഥാനത്തുള്ള മൂല്യം ഉപയോഗിച്ച് സ്ഥാനം l ലെ മൂല്യം കൈമാറുക ഇപ്പോൾ ഞാൻ ഇത് ചെയ്തു ഇപ്പോൾ ഞാൻ ആവർത്തിച്ച് അടുക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ മഞ്ഞ പോയിന്ററിന്റെ തുടക്കം മുതൽ ഇടത് വരെ അടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ വലതുവശത്ത് എല്ലാം അടുക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ A മുതൽ l വരെ മഞ്ഞയിലേക്ക് അടുക്കുന്നു അതിനാൽ ഞാൻ മഞ്ഞ പ്ലസ് 1 ഉപയോഗിച്ച് അടുക്കി വലത്തേക്ക് അടുക്കുന്നു അതിനാൽ ഇവ ഇൻപുട്ട് ആവർത്തന കോളുകളാണ് എന്നാൽ ഇപ്പോൾ പ്രധാന കാര്യം ഈ ഘട്ടത്തിൽ l നും മഞ്ഞയ്ക്കും ഇടയിലുള്ള എല്ലാം പിവറ്റിനേക്കാൾ ചെറുതാണ് മഞ്ഞ പ്ലസ് 1 ന് അപ്പുറത്തുള്ള എല്ലാം പിവറ്റിനേക്കാൾ വലുതാണ് അതിനാൽ ദ്രുതഗതിയിലുള്ള അടുക്കലിനായി ഈ രണ്ട് സോർട്ടിംഗ് സബ് ആവർത്തന കോളുകൾക്ക് ശേഷം കൂടുതൽ ഒന്നും ചെയ്യേണ്ടതില്ല ഞങ്ങൾ ചെയ്തു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പാർട്ടീഷനിംഗ് തന്ത്രവും മറ്റൊരു രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും വാസ്തവത്തിൽ ടോണി ഹോറെ നിർദ്ദേശിച്ച യഥാർത്ഥ പാർട്ടീഷനിംഗ് തന്ത്രമാണിത് അതിനാൽ ഈ യഥാർത്ഥ തന്ത്രത്തിൽ എല്ലാ ഘടകങ്ങളും ക്ലെയിം ചെയ്യുന്നതുവരെ ഒരു അറ്റത്ത് നിന്ന് ആരംഭിച്ച് സ്വൈപ്പ് ചെയ്യരുത് എന്നായിരുന്നു ആശയം പക്ഷേ അത് വിപരീത അറ്റങ്ങളിൽ ആരംഭിച്ചു അതിനാൽ നിങ്ങൾ ചില അർത്ഥത്തിൽ പടുത്തുയർത്താൻ തുടങ്ങുന്നു നിങ്ങൾ ഇവിടെ നിന്ന് താഴത്തെ ഭാഗം നിർമ്മിക്കാൻ ആരംഭിക്കുകയും ഇവിടെ നിന്ന് മുകളിലത്തെ ഭാഗം നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ക്രമേണ താഴത്തെ വശം വളരുന്നു അതിന് കൂടുതൽ ചെലവഴിക്കാൻ കഴിയുന്നതുവരെ മുകളിലത്തെ വശത്തേക്ക് പോകുകയും പിന്നീട് എല്ലാം ശരിയായിത്തീരുകയും ചെയ്യും മുമ്പത്തെപ്പോലെ നിങ്ങൾ അന്തിമ സ്വാപ്പ് ചെയ്യുന്നു അതിനാൽ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ വീണ്ടും ആരംഭിക്കുക ഞാൻ അതേ വർണ്ണമാണ് ഉപയോഗിക്കുന്നത് അതിനാൽ മഞ്ഞ എന്നത് താഴ്ന്ന പച്ചയെ സൂചിപ്പിക്കുന്നത് മുകളിലുള്ളതിനെ സൂചിപ്പിക്കുന്നു അതിനാൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ മഞ്ഞ പോയിന്റർ എടുത്ത് മഞ്ഞ അല്ലാത്ത മൂല്യം കണ്ടെത്തുന്നതുവരെ സ്കാൻ ചെയ്യുന്നു അതിനാൽ 32 43 നെക്കാൾ ചെറുതാണ് അതിനാൽ മഞ്ഞ വിഭജനം വളർത്താൻ ഞങ്ങൾ ശ്രമിച്ചത് താഴത്തെ പാർട്ടീഷനാണെന്ന് ഓർമ്മിക്കുക അതിനാൽ താഴത്തെ പാർട്ടീഷനിൽ 43 നെക്കാൾ ചെറുതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും മുകളിലുള്ള വിഭജനത്തിൽ 43 നെക്കാൾ വലുത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനാൽ ചില സെറ്റുകളിൽ ആദ്യത്തെ പിശക് കണ്ടെത്തുന്നതുവരെ ഞാൻ മഞ്ഞ കാര്യം നീക്കുന്നു അതിനാൽ 32 ആണ് അതിനാൽ ഞാൻ ഇത് ഒഴിവാക്കുന്നു 22 ഉം 43 നെക്കാൾ ചെറുതാണ് അതിനാൽ ഞാൻ അത് ഒഴിവാക്കി ഇപ്പോൾ ഞാൻ 72 എന്ന മൂല്യത്തിലെത്തി അതിനാൽ ഈ ഘട്ടത്തിൽ എന്റെ വിഭജനം ഇവിടെ അവസാനിക്കുന്നു 72 ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം ഇത് 43 നെക്കാൾ വലുതാണ് ഇപ്പോൾ ഞാൻ വലതുവശത്ത് ആരംഭിക്കുന്നു ഞാൻ സ്ഥാനത്തിനായി നോക്കുന്നു അവിടെ എനിക്ക് മുകളിലുള്ള കാര്യങ്ങളിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയും എന്നാൽ ഞാൻ ആദ്യം കാണുന്നത് 13 അവിടെ ഉണ്ടാകരുത് അതിനാൽ ഈ പോയിന്റർ മുകളിലെ പരിധി ഇവിടെയുണ്ട് അതിനാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ രണ്ട് മൂല്യങ്ങളും കൈമാറ്റം ചെയ്യുന്നു ഈ രണ്ട് മൂല്യങ്ങളും ഞാൻ കൈമാറ്റം ചെയ്താൽ ഇത് 13 ആയി മാറും ഇത് 78 ആയി മാറും തുടർന്ന് എനിക്ക് കഴിയും ഈ രണ്ട് അതിരുകളും 1 കൊണ്ട് മാറ്റുക അതിനാൽ ഈ വിഭജന തന്ത്രത്തിന്റെ അടിസ്ഥാന ഘട്ടം ഇതാണ് അതിനാൽ അടുത്ത ഘട്ടം ഞാൻ ചെയ്യുന്നത് ഞാൻ 13 ഉം 78 ഉം കൈമാറ്റം ചെയ്യുന്നു ഇല്ല എനിക്ക് ഇവിടെ ഏറ്റവും താഴ്ന്ന കാര്യം ഉണ്ടെന്നും എനിക്ക് ഇവിടെ ഒരു ഉയർന്ന കാര്യമുണ്ടെന്നും ഞാൻ പറയുന്നില്ല അതിനാൽ ഇതാണ് ഇപ്പോൾ മാറ്റമില്ലാത്തത് ഇടത് ഭാഗത്ത് താഴത്തെ കാര്യവും വലത് ഭാഗത്തിന് മുകളിലെ കാര്യവും അതിനിടയിൽ നമുക്ക് തരംതിരിക്കാത്ത ഘടകങ്ങളുമുണ്ട് എന്നാൽ നമുക്ക് ഈ രണ്ട് സൂചകങ്ങളുണ്ട് ഇടത് ഏറ്റവും അടുക്കിയിട്ടില്ലാത്ത ഇടത് ഏറ്റവും ഇംപാർട്ടേഷൻ ഘടകം ശരിയായ ഏറ്റവും കൂടുതൽ നൽകുന്ന ഘടകം അതിനാൽ ഇപ്പോൾ ഞാൻ വീണ്ടും അതേ കാര്യം ചെയ്യാൻ തുടങ്ങുന്നു ഞാൻ മഞ്ഞ വലത്തേക്ക് നീക്കുന്നു എനിക്ക് താഴേക്ക് നീട്ടാൻ കഴിയുന്നതുവരെ ഇവിടെ എനിക്ക് എവിടെയും നീട്ടാൻ കഴിയില്ല കാരണം 63 ഇതിനകം അവിടെ ഉണ്ടായിരിക്കരുത് അതിനാൽ എനിക്ക് ഈ പാർട്ടീഷൻ നീക്കാൻ കഴിയില്ല മറുവശത്ത് മുകളിലെ വിഭജനം നീക്കാൻ കഴിയും കാരണം 91 വലുതാണ് അതിനാൽ ഞാൻ അത് ഇടത്തേക്ക് നീക്കും 57 ഇപ്പോഴും വലുതാണ് അതിനാൽ ഞാൻ അത് വീണ്ടും ഇടത്തേക്ക് നീക്കും 63 ഇപ്പോഴും വലുതാണ് അതിനാൽ ഞാൻ വീണ്ടും ഇടത്തേക്ക് നീങ്ങും വലത് പാർട്ടീഷൻ സൂചകം ഇടത് പാർട്ടീഷന്റെ ഇടതുവശത്തേക്ക് നീങ്ങിയതായി ഇപ്പോൾ ഞാൻ കണ്ടെത്തി അതിനാൽ ഈ കൈമാറ്റം നടക്കുമ്പോൾ അത് ഈ വിഭജനം അവസാനിപ്പിക്കും അതിനാൽ വലത് അതിർത്തി ഇടത് അതിർത്തി കടക്കുമ്പോൾ ഞങ്ങൾ മൂലകത്തിന്റെ വിഭജനം പൂർത്തിയാക്കുമ്പോൾ കാരണം രണ്ട് ഘടകങ്ങളും തമ്മിൽ വിഭജനം നടത്താൻ ഒന്നുമില്ല അതിനാൽ ഞങ്ങൾ അവസാനിപ്പിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് മുമ്പുള്ള അതേ പ്രശ്നമുണ്ട് ഈ മൂലകത്തെ ഈ കേന്ദ്രത്തിലേക്ക് നീക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഇപ്പോൾ ഓർക്കുക ഈ കാര്യം അവസാനിക്കുമ്പോൾ അവിടെ ശരിയായ ഭാഗം ചൂണ്ടിക്കാണിക്കുന്നു താഴ്ന്ന പരിധിയുടെ അവസാന പോയിന്റ് അതിനാൽ എനിക്ക് ഇവ രണ്ടും കൈമാറാൻ കഴിയും അതിനാൽ എനിക്ക് 13 ഉം 43 ഉം കൈമാറ്റം ചെയ്യാൻ കഴിയും അതിനാൽ ഇത് ഇവിടേക്ക് നീക്കാൻ ഞാൻ ഇത് അവിടെ കൊണ്ടുപോകുന്നു തുടർന്ന് എനിക്ക് ഉത്തരം ലഭിക്കും അതിനാൽ ഞാൻ ഇത് നീക്കുകയും പിന്നീട് ഒരേ സമയം ഗ്രീൻ പോയിന്റർ നീക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എനിക്ക് താഴത്തെ മൂലകങ്ങളുടെ അവസാനഭാഗത്തേക്കോ മുകളിലെ മൂലകങ്ങളിൽ ആദ്യത്തേതിലേക്കോ വിരൽ ചൂണ്ടുന്നു ഇപ്പോൾ എനിക്ക് ഈ ഭാഗത്തേക്ക് ആവർത്തിച്ച് വേഗത്തിൽ അടുക്കാൻ കഴിയും ഈ ഭാഗം അതിനാൽ ഞങ്ങൾ സ്യൂഡോ കോഡ് എഴുതുകയോ അൽഗോരിതം കൂടുതൽ വിശദാംശങ്ങൾ എന്നിവ വിവരിക്കുകയോ ചെയ്യില്ല എന്നാൽ മുമ്പത്തെ പാർട്ടീഷനിംഗിനായി ഞങ്ങൾ ചെയ്തതുപോലെ ഈ സൂചികകൾ ചലിപ്പിക്കുന്നതിന് സമാനമായ രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായും ശ്രമിക്കാനും പ്രവർത്തിക്കാനും കഴിയും നിങ്ങൾക്ക് ഇത് ശരിയായി ലഭിക്കുമോ എന്ന് നോക്കുക ഇത് പല പുസ്തകങ്ങളിലും ചർച്ചചെയ്യുന്നു അതിനാൽ പാഠപുസ്തകങ്ങളിൽ ഞങ്ങളുടെ പക്കലുള്ള ഈ രണ്ട് പാർട്ടീഷൻ അൽഗോരിതം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എളുപ്പത്തിൽ കണ്ടെത്താം രണ്ട് സാഹചര്യങ്ങളിലും അവ അടിസ്ഥാന വേരിയൻറ് അവസ്ഥയാണെന്ന് ഓർമ്മിക്കുക ഈ രണ്ട് മാർക്കറുകളും ഉണ്ട് ഈ രണ്ട് മാർക്കറുകളും വിഭജനം നടക്കുമ്പോൾ ഇതിനകം ഉള്ള ഭാഗത്തെയും താഴത്തെ ഭാഗത്തെയും മുകളിലെ ഭാഗത്തെയും സൂചിപ്പിക്കുന്നു തുടർന്ന് ഒരു പക്ഷപാതമില്ലാത്ത ഭാഗം ഉണ്ട് തുടർന്ന് നിങ്ങൾ ചെയ്ത പക്ഷപാതമില്ലാത്ത ഭാഗം ശൂന്യമാകും